സ്വാഗതം അതിനാൽ ഇന്ന് നമ്മൾ ഫിസിക്കൽ ഡിസൈനിനെക്കുറിച്ച് സംസാരിക്കും അതിനാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ഡാറ്റാബേസ് സംഭരിച്ചിരിക്കുന്ന ഫിസിക്കൽ സ്റ്റോറേജ് മീഡിയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനാൽ നമുക്ക് കാഷെ ഉപയോഗിച്ച് ആരംഭിക്കാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാഷെ വളരെ വേഗതയുള്ളതാണ് ഇത് പ്രധാന മെമ്മറിയേക്കാൾ വേഗതയുള്ളതാണ് പക്ഷേ ഇത് വളരെ ചെലവേറിയതാണ് സിപിയു രജിസ്റ്ററുകൾ മാത്രമേ കാഷെയേക്കാൾ വേഗതയുള്ളൂ പക്ഷേ കാഷെ വളരെ ചെലവേറിയതാണ് ഡാറ്റ കാഷെയിൽ സൂക്ഷിക്കാൻ കഴിയും എന്നാൽ കാഷെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് അസ്ഥിരമാണ് എന്നതാണ് അതിനാൽ പവർ ഓഫായിക്കഴിഞ്ഞാൽ ഉള്ളടക്കങ്ങൾ അപ്രത്യക്ഷമാവുകയും ഒരു ഡാറ്റാബേസ് നിലനിർത്താൻ അത് ഉപയോഗിക്കാനാകില്ല അടുത്തതായി നമ്മൾ പ്രധാന മെമ്മറിയെക്കുറിച്ച് സംസാരിക്കും അതിനാൽ ഒരിക്കൽ കൂടി പ്രധാന മെമ്മറി വളരെ വേഗതയുള്ളതാണ് പക്ഷേ അത് വീണ്ടും വളരെ ചെലവേറിയതും അത് അസ്ഥിരവുമാണ് അതിനാൽ പ്രധാന മെമ്മറിയിൽ ഡാറ്റ നിലനിർത്താനാവില്ല കൂടാതെ സാധാരണയായി സംഭവിക്കുന്നത് ഡാറ്റാബേസുകൾ വളരെ വലുതാണ് ഒരു മെഷീനിൽ ലഭ്യമായ പ്രധാന മെമ്മറിയിൽ മുഴുവൻ ഡാറ്റയും സംഭരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല മുഴുവൻ ഡാറ്റയും സംഭരിക്കാൻ കഴിയുമെങ്കിലും പ്രധാന മെമ്മറിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിലനിൽക്കുമെന്ന് ഉറപ്പില്ല കാരണം പവർ ഓഫ് പോലുള്ള എന്തും സംഭവിക്കുകയും അപ്ഡേറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്യാം അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ഫ്ലാഷ് മെമ്മറിയെക്കുറിച്ചാണ് ഫ്ലാഷ് മെമ്മറി നമ്മൾ ഉപയോഗിക്കുന്ന യുഎസ്ബി ഡ്രൈവുകൾ ഒരു തരം ഫ്ലാഷ് മെമ്മറിയാണ് അത് ഒരു സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എസ്എസ്ഡി മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി വളരെ പ്രധാനമായി അസ്ഥിരമല്ല അതിനാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ നമ്മൾ ഒരു ഫ്ലാഷ് മെമ്മറിയിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്താൽ അത് നിലനിൽക്കും അതിനാൽ ഇത് ഹാർഡ് ഡ്രൈവിനേക്കാൾ ചെലവേറിയതാണ് നമ്മൾ ഹാർഡ് ഡ്രൈവിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കും പക്ഷേ ഇത് ഒരു മെയിൻ മെമ്മറിയേക്കാളും കാഷെയേക്കാളും വിലകുറഞ്ഞതാണ് ഇത് പ്രധാന മെമ്മറിയേക്കാൾ മന്ദഗതിയിലാണ് കൂടുതൽ പ്രധാനമായി ഫ്ലാഷ് മെമ്മറിക്ക് ചില തരം പ്രശ്നങ്ങൾ ഉണ്ട് അത് റീഡ് റൈറ്റ് സൈക്കിൾ ആണ് അതിനാൽ ഫ്ലാഷ് മെമ്മറിക്ക് പരിമിതമായ എണ്ണം റീഡ് റൈറ്റ് സൈക്കിൾ മാത്രമേ പിന്തുണയ്ക്കാനാകൂ അങ്ങനെ ഏകദേശം 106 റീഡ് റൈറ്റുകൾക്ക് ശേഷം 106 ഏകദേശം 10 ലക്ഷമാണ് ഫ്ലാഷ് മെമ്മറി പ്രകടനം കുറയുന്നു അതിനാൽ ഫ്ലാഷ് മെമ്മറിയുടെ ഒരു പ്രത്യേക ഭാഗം ഫിസിക്കൽ ഡിഗ്രഡേഷൻ കാണിക്കാൻ തുടങ്ങിയേക്കാം അത് ഇനിയുള്ള റീഡ് അല്ലെങ്കിൽ റൈറ്റുകൾ പിന്തുണയ്ക്കാൻ കഴിയണമെന്നില്ല നമ്മൾ ഫ്ലാഷ് മെമ്മറികളെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പിന്നീട് സംസാരിക്കും നമ്മൾ സംസാരിക്കുന്ന അടുത്ത പ്രധാന ഫിസിക്കൽ സ്റ്റോറേജ് മീഡിയം മാഗ്നറ്റിക് ഡിസ്ക് ആണ് ഇത് നിങ്ങൾക്ക് സാധാരണയായി മനസ്സിലാകുന്ന ഹാർഡ് ഡിസ്ക് ആണ് മാഗ്നറ്റിക് ഡിസ്കുകൾ മറ്റെല്ലാ വസ്തുക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വിലകുറഞ്ഞതാണ് അതിനാൽ ഇത് വലിയ അളവിലുള്ള ഡാറ്റ സംഭരിക്കാൻ ഉപയോഗിക്കാം കൂടാതെ തീർച്ചയായും ഇത് അസ്ഥിരമല്ല പക്ഷേ ഒരു പ്രധാന മെമ്മറിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ മന്ദഗതിയിലാണ് ഒരു ഫ്ലാഷ് മെമ്മറിയുമായി താരതമ്യപ്പെടുത്തുമ്പോഴും ഇത് മന്ദഗതിയിലാണ് അതിനാൽ മാഗ്നറ്റിക് ഡിസ്കിന് ശേഷം അടുത്തത് വരുന്നത് ഒപ്റ്റിക്കൽ ഡിസ്കുകളാണ് അതിനാൽ ഒപ്റ്റിക്കൽ ഡിസ്കുകൾ നിങ്ങളുടെ സിഡി ഡിവിഡി മുതലായവയാണ് ഇവയും അസ്ഥിരമല്ല ഇവയും വളരെ മന്ദഗതിയിലാണ് പക്ഷേ ഒപ്റ്റിക്കൽ ഡിസ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് റീ റൈറ്റബിൾ മാധ്യമമല്ല സാധാരണയായി സിഡികളും ഡിവിഡികളും ഒരിക്കൽ റൈറ്റു ചെയ്യുക പല തവണ റീഡ് ചെയ്യുക അങ്ങനെയാണ് അതിനാൽ നിങ്ങൾ ഇത് ഒരിക്കൽ റൈറ്റു ചെയ്യുകയും അത് തുടർന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നു തീർച്ചയായും ഇത് മാറ്റിയെഴുതാവുന്ന ഒരു മാധ്യമമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും റൈറ്റു ചെയ്യുവാൻ കഴിയില്ല നമ്മൾ ചർച്ച ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫിസിക്കൽ സ്റ്റോറേജ് മീഡിയത്തിൽ അവസാനത്തേതിനെ മാഗ്നറ്റിക് ടേപ്പ് എന്ന് വിളിക്കുന്നു മാഗ്നറ്റിക് ടേപ്പുകൾ ശരിക്കും വളരെ വിലകുറഞ്ഞതാണ് അത് വളരെ മന്ദഗതിയിലുള്ളതുമാണ് കാരണം ഒരു പ്രത്യേക ബൈറ്റ് ഡാറ്റയിൽ എത്താൻ നിങ്ങൾ ഒരു മാഗ്നറ്റിക് ടേപ്പിലൂടെ പൂർണ്ണമായും പോകേണ്ടതുണ്ട് പക്ഷേ ഒരു മുഴുവൻ സ്ഥാപനത്തിന്റെയും ബാക്കപ്പുകൾ എടുക്കുമ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമാണ് വലിയ അളവിലുള്ള ഡാറ്റയുടെ ബാക്കപ്പുകൾ എടുക്കുമ്പോൾ അത് വളരെ മിതമായി ഉപയോഗിക്കുന്നു മാഗ്നറ്റിക് ഡിസ്കുകളുടെ ടേപ്പുകൾ സാധാരണയായി അത്തരം ബാക്കപ്പ് ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് ദൈനംദിന ആക്സസുകൾക്കായി ഉള്ളതല്ല അല്ല കാരണം ഇത് വളരെ മന്ദഗതിയിലാണ് അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഭാഗങ്ങൾ മെയിൻ മെമ്മറിയും മാഗ്നറ്റിക് ഡിസ്കും ആണ് അവ ഹാർഡ് ഡ്രൈവ് ആണ് കൂടാതെ നമ്മൾ ഫ്ലാഷ് മെമ്മറിയെക്കുറിച്ചും കുറച്ച് സംസാരിക്കും പക്ഷേ പൊതുവെ സംഭവിക്കുന്നത് ഡാറ്റാബേസുകൾ സാധാരണയായി മാഗ്നറ്റിക് ഡിസ്കിലാണ് സൂക്ഷിക്കുന്നത് അതിനാൽ ഇവയിലാണ് ഡാറ്റാബേസുകൾ സൂക്ഷിക്കുന്നത് പക്ഷേ പ്രധാനമായി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു മാഗ്നറ്റിക് ഡിസ്കിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഏതെങ്കിലും ആക്സസ്സിനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാറ്റയെ പ്രധാന മെമ്മറിയിലേക്ക് തിരികെ കൊണ്ടുവരണം അതിനാൽ ഒരു മാഗ്നറ്റിക് ഡിസ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരുകയും ഒരുപക്ഷേ മെഷീന്റെ ആർക്കിടെക്ചറിനെ ആശ്രയിച്ച് സിപിയു രജിസ്റ്ററുകളിലേക്ക് നീങ്ങുകയും വേണം പക്ഷേ ഇത് മാഗ്നറ്റിക് ഡിസ്കിൽ നിന്ന് നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഈ ഡാറ്റ ഒരു മാഗ്നറ്റിക് ഡിസ്കിൽ നിന്ന് പ്രധാന മെമ്മറിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ ഒരു ഓവർഹെഡ് ഉൾപ്പെടുന്നു ഇതിനെയാണ് ഡിസ്ക് ആക്സസ് സമയം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഡിസ്ക് ആക്സസ് സമയം എന്താണെന്ന് വിശകലനം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സംസാരിക്കുന്ന ഡിസ്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം മാഗ്നറ്റിക് ഡിസ്കുകൾ സാധാരണയായി ഒരു സ്പിൻഡിൽ ഉൾക്കൊള്ളുന്നു അതിൽ ചില തരം സിലിണ്ടറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു അതിനാൽ അതിൽ ചില തരം പ്ലേറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇവ വ്യത്യസ്ത പ്ലേറ്റുകളാണ് ഈ ഓരോ പ്രതലത്തിലും ഡാറ്റ സംഭരിക്കാനാകും അതിനാൽ ഈ ഉപരിതലവും പിൻഭാഗവും അങ്ങനെ അങ്ങനെ ഇതിനെ ഒരു പ്ലാറ്റർ എന്ന് വിളിക്കുന്നു അതിനാൽ അത്തരം ഓരോ ഡിസ്കിനെയും ഒരു പ്ലാറ്റർ എന്ന് വിളിക്കുന്നു ഇത് പ്ലേറ്ററുകൾ കറങ്ങുന്ന ഒരു സ്പിൻഡിലാണ് അതിനാൽ പ്രധാനമായും എല്ലാം കറങ്ങുകയും ഈ പ്ലേറ്റിലെ ഓരോ പ്രത്യേക പോയിന്റും ചേർന്ന് ഒരു സിലിണ്ടർ ആകുന്നു ഇപ്പോൾ ഒരു പ്ലാറ്ററിൽ എങ്ങനെയാണ് ഡാറ്റ സംഭരിക്കുന്നത് അതിനാൽ ഓരോ പ്ലേറ്റും നിങ്ങൾ ഇത് ഇതുപോലെ വെച്ചാൽ ഇത് ഇതുപോലെ കാണപ്പെടും ഇത് തീർച്ചയായും ഒരു സമ്പൂർണ്ണ പ്ലാറ്ററാണ് അതിനിടയിൽ ഒരു സ്പിൻഡിലും അതിനാൽ ഒരു പ്ലേറ്ററിന് രണ്ട് ഉപരിതലങ്ങളുണ്ട് ഓരോ ഉപരിതലത്തിലും ഡാറ്റ സംഭരിക്കുന്ന വ്യത്യസ്ത ട്രാക്കുകളുണ്ട് അതിനാൽ ഇത് ഒരു ട്രാക്കാണ് അതിനാൽ ഇത് ഒരു ട്രാക്കാണെങ്കിൽ ഓരോ ട്രാക്കും ഒന്നിലധികം മേഖലകളായി വിഭജിക്കപ്പെടും അതിനാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത സെക്ടറുകളുണ്ട് അതിനാൽ ഇവയെ ഓരോന്നും ഡാറ്റയുടെ ഒരു സെക്ടർ എന്ന് വിളിക്കുന്നു അതിനാൽ സെക്ടറുകൾ വിടവുകളാൽ വേർതിരിക്കപ്പെടുന്നു ഓരോ സെക്ടറുകളിലും ഒന്നിലധികം ബൈറ്റുകൾ ഡാറ്റ അടങ്ങിയിരിക്കുന്നു അതിനാൽ മുഴുവൻ രൂപകൽപ്പനയും ഇങ്ങനെയാണ് അതിനാൽ ഓരോ സെക്ടറുകളിലും ഒന്നിലധികം ബൈറ്റുകൾ ഡാറ്റ അടങ്ങിയിരിക്കുന്നു ഓരോ ട്രാക്കിലും ഒന്നിലധികം സെക്ടറുകൾ അടങ്ങിയിരിക്കുന്നു ഓരോ ഉപരിതലത്തിലും ഒന്നിലധികം ട്രാക്കുകൾ അടങ്ങിയിരിക്കുന്നു ഓരോ പ്ലാറ്ററിലും രണ്ട് പ്രതലങ്ങളും ഉൾപ്പെടുന്നു ഒരു സമ്പൂർണ്ണ മാഗ്നറ്റിക് ഡിസ്ക് അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവിൽ ഒന്നിലധികം പ്ലാറ്ററുകൾ അടങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് മുഴുവൻ സിസ്റ്റവും അവിടെയുള്ളത് ഇപ്പോൾ OS ചെയ്യുന്നത് എന്താണെന്നാൽ OS ഡാറ്റയുടെ ഒരു യൂണിറ്റ് റീഡ് ചെയ്യുന്നു അത് ഡാറ്റയുടെ ബ്ലോക്ക് അല്ലെങ്കിൽ പേജ് ആണ് ഇത് OS റീഡ് ചെയ്യുന്ന പ്രത്യേകതയാണ് കൂടാതെ ഓരോ സെക്ടറിലും ഒന്നിലധികം ബ്ലോക്കുകൾ അടങ്ങിയിരിക്കുന്നു ഇത് മനസിലാക്കിയ ശേഷം ഒരു ഡിസ്ക് ആക്സസ് സമയം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ഒരു ഡിസ്ക് ആക്സസ് സമയം അതിനാൽ ഒരു ഡിസ്കിൽ നിന്ന് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ കഴിയുന്ന ഏറ്റവും ചെറിയ വിവരങ്ങൾ ഒരു സെക്ടർ ആണ് അതിനാൽ ഒരാൾ ചെയ്യാൻ ഒരു പ്രത്യേക സെക്ടറിൽ എത്തണം ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നാൽ മുമ്പത്തെ ഫിഗറിലേക്കു തിരിച്ചുപോയാൽ സിലിണ്ടറിൽ ഒരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട് ഒരു ട്രാക്കിന്റെ ഉപരിതലത്തിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഡിസ്കിന്റെ റീഡ് റൈറ്റ് ഹെഡ് ഇതാണ് ഈ ചലനം റേഡിയലായി മാത്രം ആണ് അതിനാൽ റീഡ് റൈറ്റ് ഹെഡ് ആം റീഡ് റൈറ്റ് ആർമിന്റെ ഹെഡ് ഇതാണ് റീഡ് റൈറ്റ് ആം റീഡ് റൈറ്റ് ആമിന്റെ ഹെഡിന് ഏത് ട്രാക്കിലും സ്വയം സ്ഥാപിക്കാനാകും പക്ഷേ ഏതെങ്കിലും ട്രാക്കിൽ സ്വയം സ്ഥാപിച്ചിരിക്കുന്നതിനാൽ അതിന് ഒരു സെക്ടറും ആക്സസ് ചെയ്യാൻ കഴിയില്ല അതിനാൽ അതിനായി ട്രാക്ക് തിരിക്കണം അതിനാൽ ഈ സെക്ടർ പ്രത്യേക റീഡ് റൈറ്റ് ആർമിനു കീഴിലായി റീഡ് റൈറ്റ് ആർമിന്റെ ഈ ചലനങ്ങളും ഭ്രമണവും എല്ലാം മെക്കാനിക്കൽ ചലനങ്ങളാണ് അതിനാലാണ് ഹാർഡ് ഡ്രൈവ് എത്ര വേഗത്തിൽ പ്രവർത്തിക്കുമെന്നതിന് ഒരു ഫിസിക്കൽ പരിധി ഒരു മെക്കാനിക്കൽ പരിധി ഉള്ളത് അതിനാൽ ഡിസ്ക് ആക്സസ് സമയത്തിലേക്ക് മടങ്ങുമ്പോൾ ഡിസ്ക് ആക്സസ് സമയം മൂന്ന് തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനാൽ ഡിസ്ക് ആക്സസ് സമയം മൂന്ന് വ്യത്യസ്ത സമയങ്ങൾ ഉൾക്കൊള്ളുന്നു തിരയാനുള്ള സമയം തിരിക്കാനുള്ള സമയം കൈമാറാനുള്ള സമയം എന്നിവ ഉൾക്കൊള്ളുന്നു ഇവ ഓരോന്നും അടുത്തതായി നമ്മൾ കൂടുതൽ വിശദമായി വിവരിക്കും അതിനാൽ റീഡ് റൈറ്റ് ഹെഡിന്റെ ആം ആഗ്രഹിക്കുന്ന ട്രാക്കിൽ സ്വയം സ്ഥാപിക്കാനുള്ള സമയമാണ് അന്വേഷിക്കുന്ന സമയം അതിനാൽ ഇത് റീഡ് റൈറ്റ് ഹെഡിന്റെ ഒരു റേഡിയൽ ചലനമാണ് ഇതാണ് റീഡ് റൈറ്റ് ഹെഡ് ഇത് റീഡ് റൈറ്റ് ഹെഡിന്റെ റേഡിയൽ ചലനം അതാണ് അന്വേഷിക്കുന്ന സമയം റൊട്ടേഷൻ സമയം ആവശ്യമുള്ള പ്രത്യേക സെക്ടർ റീഡ് റൈറ്റ് ആർമിന്റെ ഹെഡിന് കീഴിൽ സ്ഥാപിക്കപ്പെടുന്ന രീതിയിൽ ഡിസ്ക് തിരിക്കാനെടുക്കുന്ന സമയമാണ് അതിനാൽ ഇത് ഒരു സമ്പൂർണ്ണ ഭ്രമണമാകാം അല്ലെങ്കിൽ സെക്ടർ ഈ റീഡ് റൈറ്റ് ആർമ്മിന്റെ ഹെഡിന് താഴെ നേരത്തെതന്നെ ഉള്ള രീതിയിലാണെങ്കിൽ പൂജ്യം റൊട്ടേഷനും ആകാം അതാണ് റൊട്ടേഷൻ സമയം അവസാനത്തേത് ട്രാൻസ്ഫർ സമയമാണ് അതിനാൽ ഡാറ്റയുടെ മുഴുവൻ സെക്ടറും റീഡ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ട്രാൻസ്ഫർ സമയം അതിനാൽ ഇത് ഡാറ്റയുടെ ഒഎസ് റീഡ് ചെയ്യേണ്ടുന്ന സെക്ടർ ആണെന്ന് കരുതുക അതിനാൽ ഇത് കറങ്ങുന്ന ഈ മുഴുവൻ സമയവും റീഡ് റൈറ്റ് ആർമിനു കീഴിൽ മുഴുവൻ ഡാറ്റയും കൈമാറുന്നു അതിനാൽ ഇവയാണ് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണ സീക് സമയം സാധാരണയായി 6 മുതൽ 8 മില്ലിസെക്കൻഡ് വരെയാണ് ഇത് മില്ലിസെക്കൻഡാണ് എന്നത് ശ്രദ്ധിക്കുക റൊട്ടേഷണൽ ലേറ്റൻസി ഇത് ശരാശരി കറങ്ങാനുള്ള പകുതി സമയമാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഇത് 0 ആകാം അല്ലെങ്കിൽ പൂർണ്ണമായ ഭ്രമണമാകാം ഓർക്കുക ഡിസ്കുകൾക്ക് ഒരു വിധത്തിൽ മാത്രമേ ഭ്രമണം ചെയ്യാനാകൂ അതിനാൽ റീഡ് റൈറ്റ് ആം അത് മിസ് ചെയ്താൽ അത് തിരികെ വരാൻ പൂർണ്ണമായ ഭ്രമണം വേണ്ടിവരും അതിനാൽ ഇത് പ്രധാനമായും പകുതി ഗുണം 1 ആർപിഎം 12 x 1 rpm ആണ് ഇത് റിവൊല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് അതിനാൽ ഇത് സെക്കന്റുകളായി പരിവർത്തനം ചെയ്യുന്നതിന് മിനിറ്റ് 60 സെക്കൻഡായി പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് അതാണ് റൊട്ടേഷൻ സമയം ട്രാൻസ്ഫർ സമയം സെക്ടറുകളുടെ എണ്ണമാണ് അതിനാൽ ഒരു സെക്ടർ റീഡ് ചെയ്യുന്നതിന് അത് ഓരോ ട്രാക്കിലുമുള്ള സെക്ടറുകളുടെ എണ്ണം സമാനമായ 60ആർപിഎമ്മിലേക്ക് 60rpm മാറ്റാവുന്നതാണ് അതിനാൽ ഇത് സെക്ടറുകളുടെ എണ്ണമാണ് അതായത് ഒരു സെക്ടർ റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്രയും സമയം ആവശ്യമാണ് അത് സെക്കൻഡുകളായി പരിവർത്തനം ചെയ്യുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനാൽ ചില സാധാരണ ഡിസ്ക് പാരാമീറ്ററുകൾ എന്താണ് ചെയ്യുന്നത് അതിനാൽ ഈ സാധാരണ ഡിസ്ക് പാരാമീറ്ററുകൾ അത് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം അതിനാൽ ഒരു ഡിസ്കിന്റെ ഭ്രമണ വേഗത 7200 ആർപിഎം ആണെന്ന് കരുതുക നൽകിയിരിക്കുന്ന സീക് സമയം 8 സെക്കൻഡ് ആണെന്ന് കരുതുക ഇവ ഡിസ്കുകളുടെ നിർമ്മാതാവ് നൽകുന്നു ഇപ്പോൾ ഒരു സെക്ടർ റീഡ് ചെയ്യാനുള്ള സാധാരണ സമയം എത്രയാണ് ഇനിപ്പറയുന്ന രീതിയിൽ നമുക്ക് ഇത് കണക്കാക്കാം അതിനാൽ നിങ്ങൾക് 8 ms എന്ന് നൽകിയിരിക്കുന്നു നിങ്ങളുടെ പകുതി ഗുണം 1ആർപിഎം ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് കണക്കാക്കാം അതിനാൽ 7200 എന്നത് 60 ആയി അർത്ഥമാക്കുന്നു അതായത് സെക്കന്റുകൾ അതിനാൽ ഇത് ഏകദേശം 4 17 എംഎസായി വരുന്നു നമുക്ക് ഇത് വീണ്ടും സമാനമായി കണക്കാക്കാം അതിനാൽ ഓരോ ട്രാക്കിലും 400 സെക്ടറുകളുണ്ടെന്ന് കരുതുക അതിനാൽ ഇത് 1400 എന്നതിൽ നിന്ന് 604200 എന്നാകുന്നു അതിനാൽ ഇവ 0 02 എംഎസ് ആയി വരുന്നു അതിനാൽ ഇവയെല്ലാം കൂടി ചേർത്താൽ നമുക്ക് ആകെ 12 19 എംഎസ് സമയം ലഭിക്കും ഡിസ്കിൽ നിന്ന് ഒരു സെക്ടർ റീഡ് ചെയ്യാനുള്ള ശരാശരി സമയം അത്രയുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഡിസ്കുകൾ വളരെ മന്ദഗതിയിലാണ് കാരണം ഒരു സെക്ടർ റീഡ് ചെയ്യാൻ ഇതിന് 12 എംഎസ് ആവശ്യമാണ് ഇത് വളരെ മന്ദഗതിയിലാണെന്ന് തോന്നുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഇതിനെയാണ് റാൻഡം ഐഒ എന്ന് വിളിക്കുന്നത് അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് റാൻഡം IO Random IO എന്നും മറ്റൊന്ന് സീകൻഷ്യൽ IO Sequential IO എന്നും അറിയപ്പെടുന്നു റാൻഡം IO Random IO എന്ന് വിളിക്കുന്നത് എന്തിനെയാണെന്നാൽ അവസാനത്തെ കംപ്യുറ്റേഷനിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരു സെക്ടറിനുള്ള ശരാശരി സമയം നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ ഈ സെക്ടർ ഡിസ്കിൽ എവിടെയെങ്കിലും ക്രമരഹിതമായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കുന്നു അതിനായി സമയം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാലാണ് ഇതിനെ റാൻഡം IO Random IO എന്ന് വിളിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സെക്ടറിന്റെ വിലാസം നൽകിയിട്ടുണ്ട് അത് വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് റാൻഡം IO Random IO സീകൻഷ്യൽ IO Sequential IO ൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ വായിക്കുന്ന ഒരു പ്രത്യേക സെക്ടറും അതിനുശേഷം നിങ്ങൾ അടുത്തതായി വായിക്കേണ്ട സെക്ടറും തുടർച്ചയായി ക്രമീകരിച്ചിരിക്കുന്നു അതിനാൽ അവിടെ സീക് ടൈം ഇല്ല സീക് ടൈം 0 ആണ്കൂടാതെ ഭ്രമണ സമയവുമില്ല കാരണം റീഡ് റൈറ്റ് ആം ഇതിനകം തന്നെ ശരിയായ ട്രാക്കിലും ഇപ്പോൾ റീഡ് ചെയ്യപ്പെടുന്ന സെക്ടറിന് തൊട്ടുമുമ്പും സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ ട്രാൻസ്ഫർ സമയം മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ റാൻഡം IO Random IO ഉം സീകൻഷ്യൽ IO Sequential IO ഉം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതിനാൽ പോയിന്റുകൾ ഒരിക്കൽ കൂടി ഹൈലൈറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ രണ്ട് സെക്ടറുകളിൽ കൂടുതൽ റീഡ് ചെയ്യുന്നു എന്ന് കരുതുക അപ്പോൾ രണ്ട് സെക്ടറുകളും ഒന്നിനുപുറകെ ഒന്നായി സ്ഥാപിക്കുന്നത് അർത്തവത്താകുന്നു കാരണം രണ്ട് സെക്ടറുകളും റീഡ് ചെയ്യാൻ ആദ്യത്തെ സെക്ടർ റാൻഡം ആയി റൈറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ രണ്ടാമത്തേത് അതിന് തൊട്ടുപിന്നാലെയാണ് അതിനാൽ അവിടെ സീക് ടൈം ഇല്ല അതിനാൽ രണ്ടാമത്തെ സെക്ടർ കൂടുതൽ വേഗത്തിൽ റീഡ് ചെയ്യാനാകും അതിനാൽ രണ്ട് സെക്ടറുകളും തുടർച്ചയായി ഡിസ്കിൽ ഇടുന്നതിൽ അർത്ഥമുണ്ട് അതുകൊണ്ടാണ് സീക്വെൻഷ്യൽ ആക്സസ് വളരെ വേഗത്തിലായിട്ടുള്ളത് അതുകൊണ്ടാണ് സീക്വെൻഷ്യൽ ആക്സസിനു ഡാറ്റാബേസ് ഡിസൈൻ മുൻഗണന നൽകുന്നത് മറുവശത്ത് രണ്ട് സെക്ടറുകളും ക്രമരഹിതമായി ഡിസ്കിൽ എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സെക്ടറുകളും റീഡ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും അതിനാൽ ഒരു വലിയ ടേബിൾ അല്ലെങ്കിൽ ഒരു വലിയ ഡാറ്റാബേസോ ഉണ്ടെങ്കിൽ ഡാറ്റാബേസിലെ ഡാറ്റ ഫിസിക്കലായി സ്വീകൻഷ്യൽ സെക്ടേഴ്സിൽ ലേഔട്ട് ചെയ്യുന്നത് അർത്ഥവത്താകുന്നത് അതിനാൽ ഇതാണ് ഇതിനെക്കുറിച്ചുള്ള സാധാരണയായ കാര്യം അതിനാൽ ഡാറ്റ കൈമാറ്റ നിരക്ക് മുതലായവ ഈ സീക്വൻഷ്യൽ IO Sequential IO സമയവും റാൻഡം IO Random IO സമയവും ഉപയോഗിച്ച് കണക്കുകൂട്ടുന്നു ഇത് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി സങ്കീർണ്ണമാണ് കാരണം രണ്ട് സെക്ടറുകൾക്കിടയിൽ വിടവുകൾ ഉണ്ട് പക്ഷേ ഏകദേശം നമ്മൾ കണക്കാക്കിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സീക്വൻഷ്യൽ IO Sequential IO റാൻഡം IO Random IO യേക്കാൾ വളരെ വേഗതയുള്ളതാണ് എന്നാൽ മെയിൻ മെമ്മറി സമയം വളരെ വേഗത കൂടിയതാണ് പക്ഷേ മെയിൻ മെമ്മറി കൂടുതൽ ചെലവേറിയതാണ് അതിനാൽ ഡാറ്റ സാധാരണയായി ഡിസ്കുകളിൽ മാത്രമേ സംഭരിക്കപ്പെടുകയുള്ളൂ ഈ രണ്ട് കാര്യങ്ങളിലും ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ മിക്ക അൽഗോരിതങ്ങളും റാൻഡം IO Random IO സമയം കഴിയുന്നത്ര ഒഴിവാക്കാൻ കഠിനമായി ശ്രമിക്കും അതിനാൽ ഇത് റാൻഡം IO Random IO സമയത്തിലുപരി സീക്വൻഷ്യൽ IO Sequential IO സമയം ഉപയോഗപ്പെടുത്തും കാരണം സീക്വൻഷ്യൽ IO Sequential IO പ്രധാന മെമ്മറിയേക്കാൾ വളരെ വേഗതയുള്ളതാണ് ഡാറ്റാബേസ് ഡിസൈനർമാർ സാധാരണയായി കണക്കിലെടുക്കുന്ന മറ്റൊരു പ്രധാന കാര്യം പ്രധാന മെമ്മറിയിൽ കമ്പ്യൂട് ചെയ്യാനെടുക്കുന്ന സമയം അവഗണിക്കപ്പെടുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് ഇത് അവഗണിക്കുന്നത് കാരണം ഒരു പ്രത്യേക ഡാറ്റ പ്രധാന മെമ്മറിയിലേക്ക് കൊണ്ടുവരാനുള്ള സമയം പ്രധാന മെമ്മറിയിലെ കമ്പ്യുറ്റേഷൻ സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വലുതാണ് അതിനാൽ ഇപ്പോൾ മെഷീനുകൾ GHz മെഷീനുകളാണ് അതിനാൽ ഡാറ്റയിൽ ഏതെങ്കിലും കമ്പ്യുറ്റേഷൻ നടത്താൻ നാനോ സെക്കന്റ് അല്ലെങ്കിൽ നാനോ സെക്കൻഡിനേക്കാൾ വലുപ്പമുള്ള ചില ഓർഡറുകൾ ഉണ്ട് അത് പ്രധാന മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു എന്നിരുന്നാലും ഡാറ്റ കൊണ്ടുവരാനുള്ള സമയം മില്ലിസെക്കൻഡാണ് അതിനാൽ മില്ലിസെക്കൻഡുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൈക്രോസെക്കൻഡുകൾ എന്ന് പറയാം സിപിയുവിലെ മൈക്രോസെക്കൻഡുകൾ പ്രധാന മെമ്മറിയിലെ കംപ്യൂറ്റേഷൻ സമയവും ഡാറ്റ കൊണ്ടുവരാനുള്ള സമയവും താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണ് അതിനാൽ മൈക്രോസെക്കൻഡ് സമയം അവഗണിക്കാം ഇത് സാധാരണയായി ഡാറ്റാബേസ് ഡിസൈനർമാർ അവഗണിക്കുന്നു അതിനാൽ ഡാറ്റാബേസ് ഡിസൈനർമാർ പ്രധാന മെമ്മറി സമയം എങ്ങനെ കുറയ്ക്കണമെന്ന് ശ്രദ്ധിക്കുന്നില്ല കാരണം ഇത് മൈക്രോസെക്കൻഡുകളിൽ മാത്രമേ ഒപ്റ്റിമൈസ് ചെയ്യുന്നുള്ളൂ പകരം കൂടുതലായി മില്ലിസെക്കൻഡ് സമയത്തിലും റാൻഡം IO Random IO സമയത്തിലും കൈകാര്യം ചെയ്യുന്നു അതിനാൽ അൽഗോരിതങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവ റാൻഡം IO RandomIO സമയം കുറയ്ക്കുന്ന രീതിയിലാണ് ഫിസിക്കൽ ഡിസൈനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് അഥവാ ഡാറ്റാബേസ് അൽഗോരിതങ്ങൾ സാധാരണയായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റാൻഡം IO Random IO സമയം ചുരുക്കിയിരിക്കുന്ന രീതിയിലാണ് ഇതൊരു പരമ്പരാഗത ഡാറ്റാബേസ് സ്റ്റോറി ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ ചിത്രത്തിലേക്ക് ഒരു ഫ്ലാഷ് മെമ്മറി വന്നിട്ടുണ്ട് അതിനാൽ ഫ്ലാഷ് മെമ്മറി ഇപ്പോൾ വിലകുറഞ്ഞതാണ് ചില ഡാറ്റാബേസുകൾ ഫ്ലാഷിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഡാറ്റാബേസിന്റെ ചില ഭാഗങ്ങളെങ്കിലും ഫ്ലാഷിൽ സൂക്ഷിക്കാം ഫ്ലാഷ് മെമ്മറികൾ സാധാരണയായി ഹാർഡ് ഡ്രൈവുകളേക്കാൾ വേഗതയുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന മാഗ്നെറ്റിക് ഡിസ്ക് അതിനാൽ നമുക്ക് ചില സാധാരണ സംഖ്യകൾ എടുക്കാം അതിനാൽ ഫ്ലാഷിനുള്ള ഫ്ലാഷ് ഡ്രൈവ് റീഡ് സമയം റീഡ് ത്രൂപുട്ടിന് ചുറ്റും ആകാം ഇത് ഒരു സെക്കൻഡിൽ ഏകദേശം 300 MB ആയിരിക്കും ഇത് ഒരു സാധാരണ സമയമാണ് അതിനാൽ വ്യത്യസ്ത ഫ്ലാഷ് ഡ്രൈവുകൾക്ക് റീഡ് റൈറ്റ് ടൈമുകൾ വ്യത്യസ്തമായിരിക്കും എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് സാധാരണയായി ഇത് സെക്കൻഡിൽ 180 എംബി ആണ് ഫ്ലാഷ് ഡ്രൈവുകൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും പക്ഷേ അപ്ഡേറ്റ് വളരെ മന്ദഗതിയിലാണ് ഇത് സെക്കൻഡിൽ 80 എംബി മാത്രമായിരിക്കും ഡിസ്കുകൾക്ക് വിപരീതമായി ഡിസ്കുകളുടെ സാധാരണ റീഡ് സമയം സെക്കൻഡിൽ 160 MB ആകാം റൈറ്റ് സമയം സീക്വൻഷ്യൽ IO യെ ആശ്രയിച്ചിരിക്കും അല്ലെങ്കിൽ ഈ IO നമുക്ക് സെക്കൻഡിൽ 100 MB എന്ന് പറയാം അപ്ഡേറ്റ് സമയം ഈ സെക്കൻഡിൽ 100 MB യുടെ രണ്ട് മടങ്ങു മാത്രമാണ് അതിനാൽ ഇവിടെ ഏകദേശം രണ്ട് മടങ്ങ് കോസ്ററ് റേഷ്യോ ഉണ്ടെന്ന് നിങ്ങൾക്കു കാണാനാകും കൂടാതെ ഇത് ഒരു സീക്വൻഷ്യൽ MB ആണോ അല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഇത് സെക്കന്റിൽ 128 MB വരെ വലുതായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡിൽ 64 MB വരെ അതിനാൽ വീണ്ടും ഏകദേശം 2 മുതൽ 3 വരെ അനുപാതം ഉണ്ട് അതിനാൽ ഫ്ലാഷ് ഡ്രൈവുകൾ മാഗ്നറ്റിക് ഡിസ്കിന്റെ ഇരട്ടി വേഗതയുള്ളതാണ് പക്ഷേ ഇത് വളരെ ചെലവേറിയതുമാണ് അതിനാൽ ഫ്ലാഷ് ഡ്രൈവിൽ എത്ര ഡാറ്റ നൽകണമെന്ന് ഡാറ്റാബേസ് ഡിസൈനർക്ക് ഇപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും അതിനാൽ അവിടെ ഡാറ്റാബേസ് ഡിസൈനർക്ക് ചെയ്യാൻ കഴിയുന്ന കോസ്ററ് വേഴ്സസ് ആക്സസ് ടൈം ഒപ്റ്റിമൈസഷൻ എന്ന ഒന്നുണ്ട് ഫ്ലാഷ് ഡ്രൈവുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് അഥവാ മാഗ്നറ്റിക് ഡിസ്കുകളേക്കാൾ വളരെ വലിയ ബ്ലോക്കുകളിൽ ഡാറ്റ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട് കൂടാതെ 106 റീഡ് റൈറ്റ് സൈക്കിളുകൾക്ക് ശേഷം അത് ദ്രവിച്ചു പോകുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ സംസാരിക്കുന്ന ഡിസ്ക് ബ്ലോക്ക് ആക്സസ് അതിനാൽ ഈ ഡിസ്ക് ബ്ലോക്ക് ആക്സസ് സംബന്ധിച്ച് ചെയ്യാനാവുന്ന രണ്ട് തരം ഒപ്റ്റിമൈസേഷനുകൾ ഉണ്ട് ആദ്യത്തേത് ഡിസ്ക് ആം ഷെഡ്യൂളിംഗ് ആണ് അതിനാൽ ഇത് ചെയ്യുന്നത് എന്താണെന്നാൽ ഇത്തരത്തിലുള്ള അൽഗോരിതം ആദ്യം ഡാറ്റാബേസ് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പോകുന്ന സെക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കാണാൻ ശ്രമിക്കുന്നു തുടർന്ന് അവ പരസ്പരം ആശ്രയിക്കുന്നില്ലെങ്കിൽ റീഡും റൈറ്റും ഷെഡ്യൂൾ ചെയ്യുന്നു സ്വതന്ത്രമാണെന്ന് അനുമാനിച്ചാൽ ഡിസ്ക് ആം ഒരു സെക്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നു അതിനാൽ ഈ ഡാറ്റ ആദ്യമായി ഇത് ഉപരിതലത്തിലേക്ക് നീങ്ങുന്നു ആദ്യ ട്രാക്കിൽ ഇരിക്കുന്ന ഡാറ്റ റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു തുടർന്ന് ഇത് ആക്സസ് ചെയ്യപ്പെടും തുടർന്ന് ഇത് ആക്സസ് ചെയ്യപ്പെടുന്നു അങ്ങനെ തുടരുന്നു അതിനാൽ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നതിനേക്കാൾ ഒരു ഡിസ്ക് ആം ചലനം മാത്രമേയുള്ളൂ അതിനാൽ അതാണ് ഡിസ്ക് ആം ഷെഡ്യൂളിംഗ് പ്രവർത്തനം അതിനുശേഷം എലിവേറ്റർ അൽഗോരിതം എന്ന ഒരു അൽഗോരിതം ഉണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ തീർച്ചയായും മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനം ഉണ്ട് മറ്റൊരു തരത്തിലുള്ള ഒപ്റ്റിമൈസേഷൻ ഫയൽ ഓർഗനൈസേഷനാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കും എന്നാൽ ഫയൽ ഓർഗനൈസേഷൻ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു നാമെല്ലാവരും ഈ നിബന്ധനകൾ കണ്ടിട്ടുണ്ട് ഡിഫ്രാഗ്മെന്റേഷനിൽ എവിടെയോ അതിനാൽ ഒരു ഫയൽ ഡീഫ്രാഗ്മെന്റ് ചെയ്താൽ അല്ലെങ്കിൽ പീസസ് ആയി ബ്രേക്ക് ചെയ്താൽ അത് ഡിസ്കിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു അതിനാൽ ഫയൽ പൂർണ്ണമായും റീഡ് ചെയ്യാൻ കൂടുതൽ റാൻഡം IOs Random IOs ആവശ്യമാണ് പകരം അത് ഡിഫ്രാഗ്മെന്റ് ചെയ്താൽ മുഴുവൻ ഫയലും ഒരുമിച്ച് സംഭരിക്കുകയും ഒരു റാൻഡം IO Random IO യ്ക്ക് ശേഷം ബാക്കിയുള്ളവ സീകൻഷ്യൽ IO Sequential IO ആകുന്നു അതിനാൽ അത് ഒരു ഡാറ്റാബേസിന് വേഗമേറിയതാണ് അങ്ങനെയാണ് അത് ചെയ്യുന്നത് അതിനുശേഷം അതിന് ചെയ്യാൻ കഴിയുന്ന മറ്റ് തരത്തിലുള്ള ഒപ്റ്റിമൈസേഷനുകൾ ഉണ്ട് ഇത് ഡിഫേർഡ് റൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഡാറ്റാബേസുകൾ ഈ റൈറ്റ് ബഫറുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഒരു റൈറ്റ് ലഭ്യമായ ഉടൻ ഡാറ്റാബേസ് പോയി അത് ഡിസ്കിലേക്ക് തിരികെ റൈറ്റ് ചെയ്യുന്നില്ല അത് വീണ്ടും റൈറ്റ് ബഫറിലേക്ക് ഇടുകയും മതിയായ റൈറ്റ്സ് ബഫർ ചെയ്തതിനുശേഷം മാത്രം തുടർച്ചയായി ഒന്നിനുപുറകെ ഒന്നായി റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഇത് അർത്ഥമാക്കുന്നത് ടൈം ലോഗുകൾ മുതലായവയാണ് ഇത് എങ്ങനെ ചെയ്യാമെന്ന് പിന്നീട് നമ്മൾ കാണും എന്നാൽ അടിസ്ഥാന ആശയം എന്നത് അത് എഴുതുന്നത് മാറ്റിവയ്ക്കുന്നു അത് ഒന്നിനുപുറകെ ഒന്നല്ല അത് ഉടനടി അല്ല അതാണ് പ്രധാന കാര്യം ശരി തുടർന്ന് ഡാറ്റ റിഡൻഡൻസിയെക്കുറിച്ചുള്ള ബന്ധപ്പെട്ട പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനാൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനാണ് ഡാറ്റ റിഡൻഡൻസി ചെയ്യുന്നത് അതിനാൽ ഡാറ്റ ഒരു ഡിസ്കിലോ ഒരിടത്തോ സംഭരിക്കുന്നതിനുപകരം ഒന്നിലധികം സ്ഥലങ്ങളിൽ സംഭരിക്കുന്നു ചില മെക്കാനിക്കൽ പ്രശ്നങ്ങൾ മുതലായവ കാരണം ഒരു പകർപ്പ് നഷ്ടപ്പെട്ടാലും അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാനാകും കൂടാതെ അവയെ റെയ്ഡ് എന്ന് വിളിക്കപ്പെടുന്നു ഇത് പ്രശസ്തമായ പദങ്ങൾ ആണ് അതിനാൽ റിഡണ്ടന്റ് അറയ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക്സ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി സ്വതന്ത്രമാണ് ഡിസ്കുകൾ സ്വതന്ത്രമായി പരിപാലിക്കപ്പെടുന്നു ഓരോന്നും മറ്റൊന്നിന്റെ റിഡണ്ടന്റ് പകർപ്പാണ് ഈ മിററിംഗ് അനുവദനീയമാണ് വെബ് മിററിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പദം കേട്ടിരിക്കാം അതിനാൽ ഇന്റർ വെബ്സൈറ്റ് മിറർ ചെയ്തതോ ഷാഡോവ്ഡോ ആയതിനാൽ ഏതെങ്കിലും സൈറ്റുകളിൽ നിന്ന് ഒരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയും ഇത്രയുമാണ് ഏറെക്കുറെ ഡാറ്റ റിഡൻഡൻസിയെക്കുറിച്ച് ഉള്ളത് അപ്പോൾ ഫയലുകൾ എങ്ങനെ സംഭരിക്കാം എന്നതിന്റെ പ്രശ്നങ്ങളുണ്ട് അഥവാ ഫയൽ ഓർഗനൈസേഷനുകളുടെ പ്രശ്നം അതിനാൽ ഫയൽ ഓർഗനൈസേഷൻ ഫയലുകൾ തുടർച്ചയായ രീതിയിൽ സംഭരിക്കാനോ ബ്ലോക്ക് അഡ്രെസ്സ് മുതലായവയെ ആശ്രയിച്ച് ഹാഷ് ചെയ്യാനോ കഴിയും അതിനാൽ ഡാറ്റാബേസ് യഥാർത്ഥത്തിൽ ഡാറ്റയെക്കുറിച്ചുള്ള ഡാറ്റ സംഭരിക്കുന്നു തുടർന്ന് ഇത് ഡാറ്റ നിഘണ്ടു അല്ലെങ്കിൽ സിസ്റ്റം കാറ്റലോഗ് എന്ന് വിളിക്കുന്നു അത് ഡാറ്റയെക്കുറിച്ചുള്ള ഡാറ്റ സംഭരിക്കുന്നു അതിനാൽ അതിനുള്ള പദത്തെ മെറ്റാഡാറ്റ എന്ന് വിളിക്കുന്നു ഇത് ഡാറ്റയെക്കുറിച്ചുള്ള ഡാറ്റയാണ് അതിനാൽ പ്രാഥമിക ഡാറ്റ എങ്ങനെയാണ് സംഭരിച്ചിരിക്കുന്നത് അതിനാൽ ടേബിളുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ടേബിളുകൾ എന്താണ് അർത്ഥമാക്കുന്നത് ടേബിളുകളുടെ സ്കീമറ്റിക്സ് എന്താണ് ടേബിളുകളുടെ തരങ്ങൾ തുടങ്ങിയവ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു പ്രത്യേക ഡാറ്റയേക്കാൾ കൂടുതൽ തവണ മെറ്റാഡാറ്റ ആക്സസ് ചെയ്യപ്പെടുന്നു അതിനാൽ ടേബിളിനെക്കുറിച്ച് എന്തെങ്കിലും റീഡ് ചെയ്യുമ്പോഴെല്ലാം ടേബിളിനെക്കുറിച്ചുള്ള മെറ്റാഡാറ്റ റൈറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ മെറ്റാഡാറ്റ വേഗത്തിൽ റീഡ് ചെയ്യാൻ കഴിയുന്ന ചില അൽഗോരിതങ്ങൾ ഉണ്ടായിരിക്കുന്നതിൽ അർത്ഥമുണ്ട് അതിനാൽ ഇത് ഒരു വേഗതയേറിയ മെമ്മറിയിൽ സൂക്ഷിക്കാൻ കഴിയും അതിനാൽ ഇത് പ്രധാന മെമ്മറിയിലേക്ക് കൊണ്ടുവരാനും പ്രധാന മെമ്മറിയിൽ നിലനിൽക്കാനും കഴിയും കാരണം പൊതുവെ മെറ്റാഡാറ്റയ്ക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല പക്ഷേ ഡാറ്റയുടെ സ്ഥിതിവിവരക്കണക്കുകളിൽ ഇത് അൽപ്പം മാറ്റം വരുത്തുന്നു പക്ഷേ ഡാറ്റയുടെ തരം അധികം മാറുന്നില്ല അതിനാൽ മെറ്റാഡാറ്റ പ്രധാന മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും കാരണം ഇത് കൂടുതൽ തവണ ആക്സസ് ചെയ്യപ്പെടുന്നു അതിനാൽ ഇത്രയുമാണ് ഡാറ്റയെക്കുറിച്ച് അതിനാൽ തീർച്ചയായും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഡാറ്റയെക്കുറിച്ചുള്ള സ്ഥിതിവിവരക്കണക്കുകളും പരിപാലിക്കപ്പെടുന്നു എന്നതാണ് അതിനാൽ ഫിസിക്കൽ ഡിസൈനിന്റെ ഈ സംഭരണത്തെക്കുറിച്ച് അത്രയുമാണ് ഉള്ളത് അടുത്തതായി നമ്മൾ ഇൻഡെക്സിംഗ് കവർ ചെയ്യും